അതിനാൽ ഇപ്പോൾ നമുക്ക് നോക്കാം ഈ MoM പരിഹരിക്കുന്നതിന് നമ്മൾ എന്ത് നടപടിക്രമമാണ് ഉപയോഗിച്ചത് നമ്മൾ ഈ പൾസ് അടിസ്ഥാനവും ഡെൽറ്റ പരിശോധനയും ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ MoM എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതും കൂടാതെ നിങ്ങളുടെ കണക്കുകൂട്ടലുകളിൽ വലിയ വ്യത്യാസം വരുത്തുന്നുവെന്നും അതിനാൽ നിങ്ങളുടെ വ്യാഖ്യാനം എന്താണെന്നും നിങ്ങളോട് പറയാൻ ഞാൻ ഇപ്പോൾ സിമുലേഷനുകളുടെ ചില ഫലങ്ങൾ കാണിക്കാൻ പോകുന്നു അതിനാൽ നമുക്ക് ഒരു കേസിലും മറ്റൊരു കേസിലും നോക്കാം അതിനാൽ സവിശേഷമായി നിങ്ങളുടെ MoM ൽ നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ കൃത്യമായ ഫലങ്ങൾ ലഭിക്കും വിദ്യാർത്ഥി സെഗ്മെന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക സെഗ്മെന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇത് വർദ്ധിപ്പിക്കുന്നു സെഗ്മെന്റുകൾ നിങ്ങൾ ഇത് വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഉദാഹരണമായി ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത് ഞാൻ ഇങ്ങനെ എഴുതാൻപോകുന്നു അതിനാൽ ഞാൻ സെഗ്മെന്റുകളുടെ എണ്ണം കൂട്ടുമ്പോൾ കൂടാതെ വിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള സംഖ്യാ സംയോജനം സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ആന്റിനയുടെ നീളം ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് വളരെ പ്രചാരമുള്ള ഒരു ആന്റിന നീളമാണ് അത് ഏകദേശം പകുതി തരംഗദൈർഘ്യമുള്ളതാണ് എന്തുകൊണ്ടാണ് ഞാൻ പകുതി തരംഗദൈർഘ്യം തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമാകും ഞാൻ വളരെ നേർത്ത ആരമാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അതിനാൽ ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഏതാണ്ട് പകുതി തരംഗദൈർഘ്യമുള്ള വളരെ നേർത്ത വയർ ഉള്ളത് ആണ് എന്നാൽ അൽപ്പം കുറവ് ആണ് അതിനാൽ അതെ ഡെൽറ്റ ടെസ്റ്റിംഗ് ഫംഗ്ഷനുകൾ ശരിയാണെന്ന് കരുതി ഞാൻ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാകും അതിനാൽ ഡെൽറ്റ ടെസ്റ്റിംഗ് ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലൊന്ന് ലഭിക്കുന്നു ഇത് സംയോജിക്കാൻ തുടങ്ങുന്നു ഞാൻ ഇതാണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാം 120 ഏകദേശം ആയി നിങ്ങൾക്ക് ആരംഭിക്കാം നമുക്ക് 20 എടുക്കാം അത് ഇവിടെത്തന്നെ ഒത്തുചേരാൻ തുടങ്ങുന്നു അതിനാൽ ഇത് നിങ്ങളുടേതാണ് അതിനാൽ ഇത് ഒരു ഡെൽറ്റ വിടവുള്ളതാണ് ഇൻപുട്ട് ഇംപെഡൻസ് കണ്ടെത്താൻ ഞാൻ ഈ നടപടിക്രമം ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് വ്യത്യസ്ത ഉത്തരങ്ങൾ ലഭിക്കും ഞാൻ ഡെൽറ്റ ഗ്യാപ്പ് ഇൻപുട്ട് ഉറവിടം തിരഞ്ഞെടുക്കുന്നുണ്ടോ അതോ മാഗ്നെറ്റിക് ഫ്രിൽ ആണോ തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് എനിക്ക് വ്യത്യസ്ത ഉത്തരങ്ങൾ ലഭിച്ചേക്കാം കാരണം ലീനിയർ ഓൾജിബ്ര മാട്രിക്സും വെക്ടർസും വ്യത്യസ്തമാണ് നിങ്ങൾക്ക് വ്യത്യസ്ത ഉത്തരങ്ങൾ ലഭിച്ചേക്കാം ശരിയല്ലേ എന്നാൽ ഉത്തരം യഥാർത്ഥത്തിൽ അതിനെ വളരെയധികം ആശ്രയിക്കുന്നില്ല എനിക്ക് അവിടെ ഇൻപുട്ട് ഇംപെഡൻസ് ഉണ്ട് അതുകൊണ്ട് എന്താണ് എനിക്ക് ലഭിക്കേണ്ടത് അതിനാൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് ഇതാണ് ഈ മൂല്യം ഏകദേശം 75 മുതൽ 80 വരെ ഓംസ് ആണെന്ന് പറയാം ഇത് 75 മുതൽ 80 വരെ ഓംസിന് അടുത്താണ് ഈ റിയാക്റ്റൻസിന് എന്ത് സംഭവിക്കും അതിനാൽ ഇതിന് വിചിത്രമായ രസകരമായ ഒരു സ്വഭാവമുണ്ട് എന്നാണ് ഞാൻ ഉദ്യശിക്കുന്നത് അതിനാൽ 0 ശരിയാണ് ഇത് ഒരിടത്തു ഒരുമിച്ചുചേരുന്നതിന്റെ വളരെ നല്ല അടയാളങ്ങൾ ശരിക്കും കാണിക്കുന്നില്ല അതിനാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുo അതിനാൽ ഇത് ഡെൽറ്റ ഗ്യാപ്പിനൊപ്പമാണ് ഈ ഫലങ്ങൾ തൃപ്തികരമല്ലെന്ന് നിങ്ങൾക്ക് പറയാം ഒരു ഇൻപുട്ട് എന്ന നിലയിൽ മാഗ്നെറ്റിക് ഫ്രിൽ കുറച്ച് കൂടുതൽ കൃത്യമായിരിക്കാം അതിനാൽ മാഗ്നെറ്റിക് ഫ്രിൽ എടുക്കുക എന്ന് നിങ്ങൾക്ക് പറയാം രസകരമെന്നു പറയട്ടെ നിങ്ങൾ ഇപ്പോൾ നിരീക്ഷിക്കുന്നത് റീയാക്റ്റൻസിന് ഇതുപോലെ ചിലത് ആണ് അതിനാൽ ഒരു നല്ല ഒത്തുചേരൽ ഉണ്ടെന്ന് തോന്നുന്നു എന്നാൽ പ്രതിരോധത്തിന്റെ അതേ മൂല്യം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് കുറഞ്ഞത് 100 മുതൽ 120 വരെ സെഗ്മെന്റുകൾ ഉണ്ടായിരിക്കണം ഇത് ഏകദേശം 75 മുതൽ 80 ഓംസ് വരെയാണെന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് റീയാക്റ്റൻസ് ഒത്തുചേരുന്നതായി തോന്നുന്നില്ല അതിനാൽ ഈ ഫലങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് നിഗമനത്തിലെത്തും ഒരു ആന്റിന ഡിസൈനർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ പാരാമീറ്ററുകൾ ശരിയായി നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CEM അറിയില്ല നിങ്ങൾ CEM ന്റെ ഫലങ്ങൾ നൽകി ഇത് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും ഈ ഫലങ്ങൾ വളരെയധികം ആത്മവിശ്വാസം പ്രചോദിപ്പിച്ചേക്കില്ല പ്രതിരോധം ഏകദേശം 75 മുതൽ 80 ഓംസ് വരെ ആണെന്ന് തോന്നുന്നു എന്ന നിങ്ങൾക്ക് പറയാം ഈ പ്രതിപ്രവർത്തനം ശരിയാണോ എന്ന് എനിക്കറിയില്ല രണ്ട് ഫലങ്ങളും രണ്ട് രീതികളും അല്പം വ്യത്യസ്തമായ ഫലങ്ങൾ നൽകുന്നു ശരിക്കും ചെറിയ വ്യത്യാസമുള്ള ഫലം അല്ല അതിനാൽ ഒരു ആന്റിന ഡിസൈനർ എന്ന നിലയിൽ ഞാൻ ഉറപ്പിക്കണം എന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് പൊരുത്തമുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം ഇനിക്ക് ന്റെ മൂല്യം അറിയേണ്ടതുണ്ട് ശരിയല്ലേ അതിനാൽ ന്റെ ഏതു മൂല്യമാണ് ഞാൻ തിരഞ്ഞെടുക്കുക അതിനാൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവന്ന് നിങ്ങളുടെ CEM ഉപയോഗശൂന്യമാണെന്നും അത് മിക്കവാറും അതൊഴികെ ശരിയാണെന്നും പറഞ്ഞേക്കാം ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന അഭിപ്രായം MoM ന്റെ തിരഞ്ഞെടുപ്പ് വലിയ മാറ്റമുണ്ടാക്കുന്നു എന്നതാണ് അതിനാൽ MoM പൾസ് അടിസ്ഥാനത്തിലുള്ള ഡെൽറ്റ ടെസ്റ്റിംഗ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ലളിതമായ ഈ മാർഗ്ഗമാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും നിങ്ങളുടെ CEM കോഴ്സിനെക്കുറിച്ച് അവ അവസാനിച്ചതായി നിങ്ങൾക്ക് തോന്നുo ഇത് എന്താണ് എന്റെ ഫലങ്ങൾ മികച്ചതായി തോന്നുന്നില്ല അതിനാൽ കുറച്ചുകൂടി കൃത്യമായി എന്തെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കൂ അതിനാൽ ഞാൻ പൾസ് അടിസ്ഥാനവും പൾസ് പരിശോധനയും നടത്തും അതിനാൽ ഇത് ഗലേർകിന്റെ രീതിയാണ് Galerkin's method അതിനാൽ ഇവിടെ എനിക്ക് എന്ത് ഫലമാണ് ലഭിക്കുന്നത് അതിനാൽ വീണ്ടും ഇതാണ് എന്റെ കണക്ക് ഏകദേശം 80 ഓംസ് ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് ഇത് ഏകദേശം 60 ആണെന്നും ഇത് ഏകദേശം 10 ആണെന്നും ഓർമ്മിക്കുക ഈ കാന്തിക ഫ്രിൽ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കും ശരി ഞാൻ റിയാക്ടീവ് ഭാഗങ്ങൾ നോക്കുമ്പോൾ കൂടുതൽ രസകരമായ കാര്യം ഇവിടെ സംഭവിക്കുന്നു അതിനാൽ ഇത് പിന്നെ ഇതായിരുന്നു N 60 ഇത് ഏകദേശം 0 ആണ് ഡെൽറ്റ ടെസ്റ്റിംഗ് ഫംഗ്ഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതാണ് ഡെൽറ്റ എക്സിറ്റേഷനിലൂടെയും കാന്തിക ഫ്രില്ലിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഫലങ്ങൾ ഒരു ആന്റിന എഞ്ചിനീയർക്ക് കാണിക്കുമ്പോൾ രണ്ട് രീതികളും ശരിയായി സംയോജിപ്പിച്ചതിനാൽ കുറച്ച് സംതൃപ്തിയുണ്ട് അതിനാൽ നിങ്ങൾക്ക് റിയാക്ടീവ് ഉണ്ട് അതായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ 80 ഓംസ് 75 80 ഓംസ് റീയാക്റ്റൻസ് ഭാഗം നിങ്ങൾക്കറിയാം കൂടാതെ ഇൻപുട്ട് റിയാക്ടൻസ് ഭാഗം ഏതാണ്ട് കൃത്യമായി 0 ആണ് രണ്ട് രീതികളും ഒരേ ഉത്തരങ്ങൾ നൽകുന്നു അതിനാൽ ഇത് നമ്മളോട് പറയുന്നത് എക്സിറ്റേഷന്റെ തിരഞ്ഞെടുപ്പ് അത്ര പ്രധാനപ്പെട്ടതല്ല കാരണം നിങ്ങൾ പരിഹരിക്കുന്ന പ്രധാന കാര്യം MoM ആണ് അതിനാൽ സാധാരണയായി വിദ്യാർത്ഥികൾ ആദ്യമായി CEM പഠിക്കുമ്പോൾ അവർ പൾസ് ബേസ് ഡെൽറ്റ ടെസ്റ്റിംഗ് ചിന്തിക്കുന്നു നിങ്ങൾ അത് വേണ്ടത്ര ശരിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇത് നിങ്ങളോട് പറയുന്നത് അവർ എല്ലാ വഴികളിലൂടെയും പോയി കുറച്ചുകൂടി കൃത്യമായി എന്തെങ്കിലും ചെയ്യുന്നതുവരെ നിങ്ങൾ എല്ലാ കഠിനാധ്വാനവും ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമായത് ലഭിക്കും നിങ്ങൾക്ക് ഇതിലും വേഗത്തിലുള്ള ഒത്തുചേരൽ ലഭിക്കും ഉദാഹരണത്തിന് പൾസ് അടിസ്ഥാന ഡെൽറ്റ ടെസ്റ്റിംഗിൽ റെസിസ്റ്റീവ് ഭാഗം സംയോജിപ്പിക്കുന്നതിന് പൊരുത്തപ്പെടുന്നതിന് നിങ്ങൾ ഏകദേശം 120 N പോകേണ്ടതുണ്ട് ഇവിടെ 60 നുള്ളിലെ ഘടകങ്ങളുടെ പകുതി എണ്ണത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒത്തുചേരൽ ഫലം നേടാനാകും ചിലപ്പോൾ അതിനേക്കാൾ കുറവിൽ അതിനാൽ നിങ്ങൾ കമ്പ്യൂട്ടേഷണൽ സമയം ലാഭിക്കുന്നു എന്നാൽ എഎംഎൻ മാട്രിക്സ് ഘടകങ്ങൾ ശരിയായി കണക്കാക്കാൻ നിങ്ങൾ കുറച്ച് കൂടി ജോലി ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും അതിനാൽ ഇത് എല്ലായ്പ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് പൾസ് ബേസ് ഡെൽറ്റ ടെസ്റ്റിംഗ് ഒരു പ്രശ്നം മനസിലാക്കാൻ വളരെ നല്ലതാണ് ഇത് ശരിയായ കണക്കുകൂട്ടലുകൾക്ക് നല്ലതല്ല അതെ അതിനാൽ ഈ 0 47 a യുടെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ എന്തിനാണ് അത്തരത്തിലുള്ള ഒന്ന് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് കാരണം നിങ്ങൾക്ക് ഏകദേശം 0 ന്റെ ഒരു റിയാക്ടീവ് ഭാഗം ലഭിക്കുന്നു കൂടാതെ അത് 75 മുതൽ 80 Ohms വരെയാകുന്നു ഇത് ഒരു സാധാരണ പൊരുത്തപ്പെടുത്താൻ പര്യാപ്തമാണ് RF സർക്യൂട്ട് അത് ശരിയാണോ